ഇപ്പോൾ ഈ തുല്യതാ സിദ്ധാന്തങ്ങൾ സാധാരണയായി പ്രീഡിഗ്രി കോഴ്സിൽ കാണപ്പെടാത്ത സിദ്ധാന്തങ്ങളാണ് പക്ഷേ അവ കമ്പ്യൂട്ടേഷണൽ പ്രശ്നങ്ങളിൽ വളരെ ഉപയോഗപ്രദമാണ് അതിനാൽ തുല്യത സിദ്ധാന്തം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം അതിനാൽ അതിന്റെ ധാരാളം സെറ്റുകൾ നമുക്ക് ഘട്ടം ഘട്ടമായി പോകാം അതിനാൽ ആദ്യം നമ്മൾ വോളിയം തുല്യത സിദ്ധാന്തം എന്ന് വിളിക്കുന്നത് നോക്കുന്നു അതിനാൽ നമുക്ക് ഇവിടെ സ്ലൈഡിന്റെ ഇടത് ഭാഗത്ത് നിന്ന് ആരംഭിക്കാം അതിനാൽ നമുക്ക് ചില സ്രോതസ്സുകൾ ഉണ്ടെന്ന് പറയാം ഈ ഉറവിടങ്ങൾ എം ജെ നൽകിയത് വളരെ ലളിതമാണ് അതിനാൽ എനിക്ക് ഇവിടെ M എന്നതിൽ ചില നിലവിലെ ഉറവിടങ്ങളുണ്ട് ഇവിടെ J എന്നതിൽ ചില നിലവിലെ ഉറവിടങ്ങളുണ്ട് അവ മനോഹരമായി പ്രസരിക്കുന്നു ഈ നീല സമവാക്യം ഇവിടെ നോക്കുന്നു നിങ്ങൾക്ക് ഒരു വസ്തുവും ഇല്ലെന്ന് പറയാൻ കഴിയും കാരണം സമവാക്യത്തിന്റെ ഏത് ഭാഗമാണ് വസ്തു ഇല്ലെന്ന് നിങ്ങളോട് പറയുന്നത് ഇടത്തരം ഗുണങ്ങൾ എവിടെ പോകുന്നു എപ്സിലോണും mu വും ഇവിടെയും എന്താണ് മൂല്യം അതായത് യഥാർത്ഥത്തിൽ ഒരു വസ്തുവും ഇല്ല അതിനാൽ ഇത് വാക്വം റൈറ്റ് ആണ് അതിനാൽ ഈ വൈദ്യുതധാരകൾ ശൂന്യമായ സ്ഥലത്ത് പ്രസരിക്കുന്നതായി സജ്ജീകരിക്കുന്നു അതിനാൽ ശൂന്യമായ സ്പെയ്സിലോ വാക്വത്തിലോ ഉള്ള ഫീൽഡുകൾ സ്ക്രിപ്റ്റിന്റെ വലതുവശത്തുള്ള 0 കൊണ്ട് സൂചിപ്പിക്കുന്നു അതിനാൽ സൂചിപ്പിക്കുന്നത് സബ്സ്ക്രിപ്റ്റിലെ ഒന്നും ഇല്ലെന്ന് നിങ്ങളോട് പറയുന്നു അത് നിലവിലെ ഉറവിടങ്ങൾ മാത്രമാണ് ഈ സമവാക്യങ്ങൾ അവ എങ്ങനെ പരിഹരിക്കാം എന്നതിന്റെ ഒരു ഹ്രസ്വ കാഴ്ച ഞങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങൾ ആദ്യ സമവാക്യം ചുരുട്ടുക രണ്ടാമത്തെ സമവാക്യം മാറ്റിസ്ഥാപിക്കുക നിങ്ങൾക്ക് ഒരു തരംഗ സമവാക്യം ലഭിക്കും എന്നാൽ തരംഗ സമവാക്യങ്ങൾക്ക് നിലവിലെ ഉറവിടങ്ങൾ ഉണ്ടായിരിക്കും എന്നതാണ് വ്യത്യാസം ഇപ്പോൾ നമുക്ക് ജീവിതം കുറച്ചുകൂടി രസകരമാക്കാം കാരണം യഥാർത്ഥ ജീവിതം ശരിയാകും അതിനാൽ ഇപ്പോൾ ഞാൻ ഇവിടെ തടസ്സം കളിക്കുന്നു എന്ന് പറയാം ഒരു തടസ്സം അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിനെ ഞാൻ എങ്ങനെ ചിത്രീകരിക്കണം ഇടത്തരം ഗുണങ്ങളാൽ കൂടാതെ അത് സ്ഥലത്തിന്റെ പ്രവർത്തനമായിരിക്കും ഉദാഹരണത്തിന് ഇവിടെ ഒന്നുമില്ല ഇവിടെ ഒബ്ജക്റ്റ് ശരിയാണ് അതിനാൽ ആ വിവരങ്ങളെല്ലാം ക്യാപ്ചർ ചെയ്തു അതിനാൽ ബഹിരാകാശത്തിന്റെ പ്രവർത്തനമായി സൂചിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഈ സമവാക്യങ്ങൾ ഒരു മാധ്യമത്തിന്റെ സാന്നിധ്യത്തിലാണ് അപ്പോൾ എപ്സിലോണും മ്യുവും ഒഴികെ എന്താണ് സംഭവിച്ചത് ഈ രണ്ട് കൂട്ടം സമവാക്യങ്ങൾക്കിടയിൽ മറ്റെന്തെങ്കിലും മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ വിദ്യാർത്ഥി E മാറി E മാറി വ്യക്തമായും ഒരിക്കൽ ഞാൻ ആ വസ്തുവിനെ അവതരിപ്പിച്ചുകഴിഞ്ഞാൽ ആ വസ്തു വയലുകളെ ചിതറിക്കാൻ പോകുന്നു അതിനാൽ വയലുകൾ ഇനി ഉണ്ടാകില്ല ഇപ്പോൾ വയലുകൾ E H ആയി മാറും വൈദ്യുതധാരകൾ മാറുമോ നിലവിലെ ഉറവിടങ്ങൾ അതേപടി നിലനിൽക്കും എന്റെ ട്രാൻസ്മിറ്റർ ഇപ്പോഴും അവിടെത്തന്നെ നിൽക്കുകയായിരുന്നിരിക്കാം അതിനാൽ M J എന്നിവ പഴയതുപോലെ തന്നെ അതിനാൽ ഇതാണ് നമ്മുടെ അവസ്ഥ ഇതിനെയാണ് തുല്യതാ സിദ്ധാന്തം എന്ന് വിളിക്കുന്നതെന്ന് ഇപ്പോൾ ഓർക്കുക അതിനാൽ തുല്യത എന്നതിനർത്ഥം ഞാൻ ഒരു പ്രശ്നത്തെ മറ്റൊരു തരത്തിലുള്ള പ്രശ്നത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ പോകുകയാണ് അത് പരിഹരിക്കാൻ എളുപ്പമായിരിക്കും അത് ഒബ്ജക്റ്റീവ് ശരിയാണ് അതിനാൽ ആ ലക്ഷ്യം എങ്ങനെ കൈവരിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനാൽ ഞാൻ വാക്വം ഉപയോഗിച്ചാണ് ആരംഭിച്ചതെന്ന് വ്യക്തമാണ് തുടർന്ന് ഞാൻ ഒരു തടസ്സത്തിലേക്ക് പോയി M J എന്നിവയുടെ ബാഹ്യ നിലവിലെ ഉറവിടങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവ വ്യക്തമാക്കുന്നത് വളരെ സങ്കീർണ്ണമായേക്കാം അതിനാൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന സ്വാഭാവികമായ കാര്യം ഈ രണ്ട് സെറ്റ് സമവാക്യങ്ങൾ എടുത്ത് അവ കുറയ്ക്കാം എന്നതാണ് അതിനാൽ ഞാൻ അവരുടെ ഗുണങ്ങൾ കുറച്ചാൽ എന്താണ് അപ്രത്യക്ഷമാകുന്നത് വിദ്യാർത്ഥി M ഉം J ഉം M J എന്നിവ നേരെ പോകുന്നു അതിനാൽ ഞാൻ ഈ രണ്ട് സമവാക്യങ്ങളും കുറച്ചാൽ എനിക്ക് ഒരു ലഭിക്കും അതിനാൽ ആദ്യ ടേം മുതൽ ക്ഷമിക്കണം ഞാൻ 1 ൽ നിന്ന് 2 കുറച്ചതിനാലും മൈനസ് ആയതിനാലും M പദം അപ്രത്യക്ഷമായതിനാലാണിത് എനിക്കും അതുതന്നെ ചെയ്യാം H ന്റെ ചുരുളൻ ഉൾപ്പെടുന്ന സമവാക്യങ്ങളുടെ രണ്ടാമത്തെ സെറ്റിലും എനിക്ക് ഇതുതന്നെ ചെയ്യാൻ കഴിയും അതിനാൽ ഞാൻ ശരിയാക്കാൻ പോകുന്നു ശരിക്കും ലളിതമായ കൃത്രിമത്വം ഇതുവരെ ശരിയാണ് ഈ രണ്ട് സമവാക്യങ്ങളുടേയും ഭംഗി നിങ്ങൾക്ക് മാത്രമേയുള്ളൂ നിങ്ങൾക്ക് നിലവിലെ ഉറവിടങ്ങളൊന്നുമില്ല എനിക്ക് അറിയാവുന്ന ഫീൽഡുകളും ഭൌതിക ഗുണങ്ങളും നിങ്ങൾക്ക് മാത്രമേയുള്ളൂ ഇപ്പോൾ ചിതറിക്കിടക്കുന്ന ഫീൽഡ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ആശയം അവതരിപ്പിക്കാനുള്ള നല്ല സമയമാണിത് ചിതറിയ ഫീൽഡ് എന്ന വാക്ക് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അപ്പോൾ ചിതറിക്കിടക്കുന്ന ഫീൽഡ് എന്തായി നിർവചിച്ചിരിക്കുന്നു അതിനാൽ വസ്തുവിന്റെ സാന്നിധ്യത്തിൽ വൈദ്യുത മണ്ഡലം തമ്മിലുള്ള വ്യത്യാസവും വസ്തുവിന്റെ വലത് അഭാവവും അതിനാൽ ഇവിടെയുള്ള ഈ പദം ചിതറിക്കിടക്കുന്ന വൈദ്യുത മണ്ഡലം ശരിയാണ് അതിനാൽ മേക്ക് സെൻസ് ചിതറിക്കിടക്കുന്ന ഫീൽഡ് എന്ന വാക്കിന്റെ അർത്ഥം വസ്തുവിനാൽ ചിതറിക്കിടക്കുന്ന ഫീൽഡുകൾ എന്നാണ് ഇതിനകം ഉണ്ടായിരുന്ന സംഭവ ഫീൽഡ് ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഞാൻ E എന്നതിൽ നിന്ന് കുറയ്ക്കുന്നു അതിനാൽ അതാണ് ചിതറിക്കിടക്കുന്ന വൈദ്യുത മണ്ഡലം അതുപോലെ തന്നെ കാന്തികക്ഷേത്രത്തിലെ വ്യത്യാസവും വസ്തുവും വ്യത്യാസവുമില്ലാതെ എനിക്ക് എടുക്കാൻ കഴിയും ചിതറിക്കിടക്കുന്ന Hs എന്ന് ഞാൻ വിളിക്കും ഞങ്ങൾ ഇതിനെ ചിതറിക്കിടക്കുന്നതായി വിളിക്കുന്നു വിദ്യാർത്ഥി സർ നമുക്ക് രണ്ട് വസ്തുക്കൾ ഉണ്ടെന്ന് കരുതുക ഈ പ്രശ്നത്തിൽ നിരവധി ഒബ്ജക്റ്റുകൾ ഉണ്ടാകാം അത് പ്രശ്നമല്ല സ്പേസ് എപ്സിലോൺ ആറിന്റെ പ്രവർത്തനം ഏതെങ്കിലും സങ്കീർണ്ണമായ ഫംഗ്ഷൻ ആകാമെന്നതിനാൽ അത് എപ്സിലോൺ ആറിൽ ഉൾപ്പെടുത്തുക മാത്രമാണ് ഞാൻ ചെയ്യേണ്ടത് അതിനാൽ എനിക്ക് ഇവിടെ പരസ്പരം ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കാം ഒരു പ്രശ്നവുമില്ല എനിക്ക് അത് എപ്സിലോണിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തണം അതിനാൽ ഇത് വളരെ സാധാരണമാണ് ഉറവിടങ്ങളുടെ എണ്ണം പോലും പലതായിരിക്കാം അവയെല്ലാം റദ്ദാക്കിയാലും കാര്യമില്ല എനിക്ക് സുഖമാണോ അതിനാൽ ഇതുവരെ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഒന്നും പരിഹരിച്ചിട്ടില്ല ഞങ്ങൾ ഉറവിടങ്ങൾ ഇല്ലാതാക്കി അതിനാൽ നമുക്ക് ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയും അതിനാൽ മുമ്പത്തെ സ്ലൈഡിൽ നിന്നുള്ള സമവാക്യം ഞാൻ ഇവിടെ തിരുത്തിയെഴുതി അതിനാൽ ഇലക്ട്രിക് ഫീൽഡ് സംഭവത്തിലും ആകെത്തിലുമുള്ള വ്യത്യാസം ഇതാണ് ഞാൻ ഇതിനകം സൂചിപ്പിച്ചതുപോലെ ചിതറിക്കിടക്കുന്ന ഫീൽഡ് ഇതാണ് ഇതാണ് ഞങ്ങൾക്ക് ഇതിനകം ശരിയാക്കിയത് അതിനാൽ ഇതിനെ സൌകര്യപ്രദമായ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഇതിൽ അൽപ്പം കൂടി ബീജഗണിതം ചെയ്യാൻ ശ്രമിക്കാം അതിനാൽ ഞാൻ എഴുതിയത് ശരിയാണ് അതിനാൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ പദമാണ് എനിക്ക് എങ്ങനെ എഴുതാം എനിക്ക് ഈ രൂപത്തിൽ എഴുതാമോ വ്യക്തമല്ലാത്ത മൊത്തം ഫീൽഡ് മൊത്തം ഫീൽഡ് H ന്റെ ആകെത്തുകയാണെന്ന് നമുക്ക് പറയാം അതുകൊണ്ട് ഉറപ്പായി എഴുതാം എന്ന് പറയുന്നു അതിനാൽ ഇവിടെയുള്ള ഈ പദം ശരിയാണെന്ന് ലളിതമാക്കാം അവരാണ് എനിക്കുള്ളത് അതിനാൽ ഒപ്പം ഇവിടെ ഞാൻ അലസനാണ് ഇപ്പോഴും r ന്റെ പ്രവർത്തനം തീർച്ചയായും സ്ഥിരമാണ് അതിനാൽ ഷോർട്ട്ഹാൻഡ് നൊട്ടേഷനിൽN ഞാൻ ഇത് പുതിയതായി എഴുതുകയാണ് പക്ഷേ അവയെല്ലാം സ്ഥലത്തിന്റെ പ്രവർത്തനങ്ങളാണ് mu നോ എപ്സിലോണിനോ പ്രത്യേക പരിഗണന നൽകേണ്ടതില്ല അവയെല്ലാം സ്ഥലത്തിന്റെ പ്രവർത്തനങ്ങളാണ് എനിക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് എനിക്ക് H നിബന്ധനകൾ ശരിയായി സംയോജിപ്പിക്കാൻ കഴിയും എന്നതാണ് അതിനാൽ എനിക്ക് ശരിയാകാം വളരെ നല്ലത് രണ്ടാമത്തെ സമവാക്യത്തിനും എനിക്ക് അതേ ബീജഗണിതം ആവർത്തിക്കാം അതിനാൽ ഞാൻ അങ്ങനെ തന്നെ വിടുക ഈ സാഹചര്യത്തിൽ എന്ന് എഴുതാം വീണ്ടും എനിക്ക് നിബന്ധനകൾ ഒരു E ആയി സംയോജിപ്പിക്കാം എനിക്ക് a ലഭിക്കും ഇപ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടി ലളിതമാക്കാൻ ഗണിതത്തെ ലളിതമാക്കാൻ നമുക്ക് ഇവിടെ മറ്റൊരു പദം നിർവചിക്കാം അതിനാൽ ഇവിടെ നിങ്ങൾ കാണുന്ന ഈ പദം ഒരു നീണ്ട പദമാണ് അതിനാൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക തുല്യമായ കറന്റ് എന്ന് വിളിക്കുന്ന ഒന്ന് നിർവചിക്കാം തുല്യ കറന്റ് എന്താണ് ലളിതമായി ശരി ഇവിടെ ഈ പദം ഞാൻ എം തുല്യമായ ശരിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഒരു പ്രശ്നവും പരിഹരിച്ചിട്ടില്ല ഞാൻ ഈ നിബന്ധനകൾ വീണ്ടും എഴുതുകയാണ് അതുപോലെ ഇവിടെയുള്ള j തത്തുല്യമായ പദം ഇങ്ങനെ എഴുതപ്പെടും അതിനാൽ ഈ പദം ഇവിടെയുണ്ട് ശരി നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ ഈ സമവാക്യങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ അപ്പോൾ ആദ്യ സമവാക്യം എന്തായിരിക്കും അതിനാൽ നമുക്ക് ഈ സമവാക്യം ഇവിടെ 1 എന്ന് വിളിക്കാം അതിനാൽ സമവാക്യം ഒന്ന് ആയിത്തീരും അതിനാൽ ഇവിടെയുള്ള ആദ്യ ടേം മൈനസ് എം തുല്യമായ മൈനസ് j ഒമേഗ mu നട്ട് H ആയി മാറും രണ്ടാമത്തെ ടേം മൈനസ് j മൈനസ് j ഒമേഗ എപ്സിലോൺ നട്ട് s ആയി മാറും അതിനാൽ ഞാൻ ഈ സമവാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അധിക മൈനസ് അടയാളം ഉണ്ടെന്ന് എനിക്ക് നഷ്ടമായതായി എനിക്ക് തോന്നുന്നു അതെ ശരിയാണ് അതിനാൽ ഇവിടെത്തന്നെ ഒരു പ്ലസ് ചിഹ്നം ഉണ്ടായിരുന്നു അതിനാൽ ഒരു മൈനസ് അടയാളവും ഉണ്ടാകരുത് അതിനാൽ ഞങ്ങൾ ഈ പ്ലസ് ഇവിടെ സൂക്ഷിക്കും അതെ അത് ഒരു മൈനസ് ചിഹ്നത്തിന്റെ തെറ്റാണ് കുഴപ്പമില്ല ഇപ്പോൾ നിങ്ങൾ ഈ സമവാക്യങ്ങൾ നോക്കുമ്പോൾ അവ എങ്ങനെ കാണപ്പെടുന്നു അവ യഥാർത്ഥ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ പോലെയാണ് കാണപ്പെടുന്നത് വസ്തുനിഷ്ഠമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ വസ്തു ഇല്ലെങ്കിൽ വിദ്യാർത്ഥി ഒരു വസ്തുവും ഇല്ല ഒരു വസ്തുവും ശരിയല്ല അതിനാൽ ഇതാണ് എന്നാൽ നമ്മൾ എന്താണ് വിലയായി നൽകേണ്ടത് ഞങ്ങൾ ഇപ്പോൾ ചില പുതിയ തത്തുല്യമായ കറന്റുകൾ അവതരിപ്പിക്കേണ്ടതുണ്ട് എന്നാൽ ഇവിടെ വില അതിനാൽ ഈ വോളിയം തുല്യത തത്വം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു പ്രസ്താവന നടത്താം ഞങ്ങൾ എന്താണ് ചെയ്തത് ഞങ്ങൾ ഇവിടെ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ആരംഭിച്ചു ഈ സമവാക്യങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിച്ചത് ചില ബീജഗണിതങ്ങളുടെ ഫലമായി ഞാൻ ഈ സമവാക്യങ്ങളുടെ കൂട്ടത്തിലേക്ക് ചുരുങ്ങി അവ സ്വതന്ത്രമായ സ്ഥലത്ത് പ്രസരിക്കുന്ന ഉറവിടങ്ങളെക്കുറിച്ചുള്ളതാണ് അതിനാൽ ഞാൻ ചെയ്തത് ഈ തടസ്സം മുഴുവനും തുല്യമായ ഒരു കൂട്ടം വോളിയം ഉറവിടങ്ങൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചു എന്നതാണ് അതിനാൽ ഈ എം ജെ ഇവ ഉറവിടങ്ങളാണ് അതിനാൽ കോഴ്സിൽ നമ്മൾ പിന്നീട് കാണുന്നത് പോലെ ഒരിക്കൽ ശൂന്യതയിലായിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സമവാക്യങ്ങൾ പരിഹരിക്കാൻ ലളിതമാണ് എപ്സിലോൺ ബഹിരാകാശത്തിന്റെ പ്രവർത്തനമായ ഇത്തരം സമവാക്യങ്ങളാണ് അതിനാൽ ഞാൻ യഥാർത്ഥത്തിൽ പ്രശ്നം പരിഹരിച്ചിട്ടില്ല നോക്കാൻ എളുപ്പമുള്ള ഒരു രൂപത്തിലേക്ക് ഞാൻ അതിനെ പരിവർത്തനം ചെയ്തു അതിനാൽ എന്റെ പക്കലുള്ള തത്തുല്യമായ വൈദ്യുതധാരയുടെ നിർവചനം നോക്കൂ എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു തുല്യ വൈദ്യുതധാരയുടെ നിർവചനത്തിൽ എനിക്കറിയാത്ത ചിലത് അടങ്ങിയിരിക്കുന്നു എനിക്കറിയാം j omega mu minus mu എന്ന് പറയട്ടെ എനിക്കറിയില്ല H അറിയില്ല എനിക്ക് മൊത്തം ഫീൽഡ് അറിയില്ല അതുപോലെ j തത്തുല്യമായതിന് എനിക്ക് ഒമേഗ എപ്സിലോൺ അറിയാം എന്നാൽ ഇത് എനിക്ക് അറിയാത്ത വൈദ്യുത മണ്ഡലമാണ് അതിനാൽ ഞാൻ ഇത് ഉണ്ടാക്കി ഞാൻ പ്രശ്നം യഥാർത്ഥത്തിൽ പരിഹരിച്ചിട്ടില്ല ഞാൻ പ്രശ്നം M തത്തുല്യത്തിലേക്കും J തത്തുല്യത്തിലേക്കും മാറ്റി അതിനാൽ ഈ കോഴ്സിൽ പോകുന്തോറും ഇതിന്റെ കാരണം വ്യക്തമാകും എന്നാൽ കാന്തികവും വൈദ്യുതവുമായ നിലവിലെ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ഒരു വസ്തുവിനെ മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള ഒരു ജനപ്രിയ മാർഗമാണിത് ഇത് ശാരീരികമായി നിലവിലില്ലാത്ത തുല്യമായ പ്രശ്നമാണെന്ന് ഓർക്കുക ബഹിരാകാശത്ത് ഇരിക്കുന്ന ഭൌതികമായി നിലവിലുള്ള ഉറവിടങ്ങളില്ല ഗണിതശാസ്ത്രപരമായി ഞാൻ അവയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് കാരണം ഇത് തന്നെയാണ് പരിഹാരം ഇവിടെ ഞാൻ ഈ സമവാക്യം ഉപയോഗിക്കുന്നിടത്ത് കുറയ്ക്കലും അതുപോലുള്ള കാര്യങ്ങളും ചേർക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് അതിനാൽ ഇതാണ് വോളിയം തുല്യത സിദ്ധാന്തം ശരിയാണ് അതിനാൽ ഇത് വോളിയം തുല്യത സിദ്ധാന്തങ്ങളായിരുന്നു രണ്ടാമത്തെ തുല്യത സിദ്ധാന്തത്തെ ഉപരിതല തുല്യത തത്വം എന്ന് വിളിക്കുന്നു അതിനാൽ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഇന്റർഫേസ് ശരിയാണെന്ന് ഞാൻ ഇപ്പോൾ ചിന്തിക്കേണ്ട വാക്കിന് നിർദ്ദേശിക്കുന്നതുപോലെ ഉപരിതല തുല്യത തത്വങ്ങൾ അതിനാൽ ഇവിടെ ഒരു തുക സാധാരണയുണ്ട് നമുക്ക് പറയാം വിദ്യാർത്ഥി H 2 മൈനസ് H 1 പോസിറ്റീവ് ആണെന്ന് പറയുക വീണ്ടും അതെ മൈനസ് ചിഹ്നത്തിലെ തെറ്റ് ഇത് പ്ലസ് ആയിരിക്കണം അതിനാൽ നമുക്ക് ആദ്യം ശാരീരിക പ്രശ്നത്തിൽ തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ആരംഭിക്കാം തുടർന്ന് തുല്യമായ പ്രശ്നമാക്കി മാറ്റാം അപ്പോൾ ഇവിടെ എന്താണ് ശാരീരിക പ്രശ്നം അതിനാൽ ഇവിടെ J M എന്നിവയിൽ നിലവിലുള്ള ചില ഉറവിടങ്ങൾ എനിക്കുണ്ട് ചില വോളിയത്തിൽ പ്രസരിക്കുന്നു അതിനാൽ നമുക്ക് ഒരു സാങ്കൽപ്പിക ഉപരിതലം എടുക്കാം ഉപരിതലം യഥാർത്ഥത്തിൽ നിലവിലില്ല അതിനാൽ ഞങ്ങൾ ഈ പ്രദേശം എന്ന് വിളിക്കും അതിനാൽ നമുക്ക് ഇതിനെ വിളിക്കാം നമുക്ക് ഇതിനെ ശരി എന്ന് വിളിക്കാം അതിനാൽ നമുക്ക് ഒരു ചെറിയ ഗെയിം കളിക്കാം നമുക്ക് ഒരു നിരീക്ഷകനെ ഇവിടെ നിർത്താം മറ്റൊരു നിരീക്ഷകൻ ഇവിടെയുണ്ട് ഇപ്പോൾ ഈ നിരീക്ഷകരുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഇത് ഒരു വിചിത്രമായ ഗെയിമാണ് ഈ ഗൈ ഒബ്സർവർ 2 ന് വോളിയം 2 ൽ എവിടെയും ചുറ്റി സഞ്ചരിക്കാം പക്ഷേ വോളിയം 1 ലേക്ക് നടക്കാൻ കഴിയില്ല കൂടാതെ ഇവിടെയുള്ള നിരീക്ഷകന് 1 ന് തിരിച്ചും വോളിയം 1 ൽ നടക്കാൻ കഴിയും പക്ഷേ വോളിയം 2 ലേക്ക് ക്രോസ്ഓവർ ചെയ്യാൻ കഴിയില്ല അതിനാൽ ഇതിനെ ഞങ്ങൾ ഒരു യഥാർത്ഥ പ്രശ്നം എന്ന് വിളിക്കും ഇപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചുതന്ന ഈ ഡോട്ടുള്ള പ്രതലം ഇതൊരു സാങ്കൽപ്പിക പ്രതലമാണ് അത് യഥാർത്ഥത്തിൽ നിലവിലില്ല ഞാൻ അത് ശരിയായി വരച്ചു അപ്പോൾ അതിർത്തിക്കപ്പുറമുള്ള വയലുകളിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ ഇപ്പോൾ വായുവിൽ ഒരു രേഖ വരച്ചതിനാൽ ഇത് സമാനമായിരിക്കും ഈ സാങ്കൽപ്പിക പ്രതലത്തിൽ ഫീൽഡുകൾ തുടർച്ചയായിരിക്കും അതിനാൽ ഞാൻ ഒബ്സർവർ 2 ഒബ്സർവർ 2 ന് ഈ അളവുകളിൽ ഏതാണ് ആക്സസ് ഉള്ളതെന്ന് ഞാൻ ചോദിച്ചാൽ നോക്കുമ്പോൾ വിദ്യാർത്ഥി E2 നിരീക്ഷകന് വലത്തേക്ക് കടക്കാൻ കഴിയില്ല അതിനാൽ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഉള്ളതെന്ന് നിരീക്ഷിക്കണോ അവൻ എനിക്ക് തുല്യനായിരിക്കും എന്ന് പറയും ഹേ നിരീക്ഷകൻ 1 പറയൂ നിങ്ങളുടെ ഭാഗത്ത് എന്താണ് വിലയെന്ന് അദ്ദേഹം ഇവിടെ എഴുതും അതിനാൽ മറ്റ് നിരീക്ഷകരിൽ നിന്നും ചില ന്യൂട്രൽ റഫറികളിൽ നിന്നും വന്നതാണെന്ന് അദ്ദേഹം എഴുതും അവിടെ എന്തെങ്കിലും കാന്തിക വൈദ്യുത പ്രവാഹമുണ്ടോ കാരണം കാന്തിക വൈദ്യുതധാര ശുദ്ധമായ ഉപരിതല വൈദ്യുതധാരയാണ് അത് ഇവിടെയും വലതുവശത്തും ഇല്ല അതിനാൽ സാങ്കൽപ്പിക സാഹചര്യത്തിൽ ഒരു കാന്തിക വൈദ്യുത പ്രവാഹം ഉണ്ടെന്ന് അവരോട് പറയപ്പെടുന്നു അത് നേരിയ വായുവിൽ ഉള്ളതിനാൽ ശരിയല്ല ഞാൻ വായുവിൽ ഒരു ലൈൻ ഉണ്ടാക്കി ഇവിടെ എന്താണ് കറന്റ് എന്ന് പറഞ്ഞു കറന്റ് ഇല്ല ഫ്രീ സ്പേസ് ആണ് അവിടെ കറന്റ് തൂങ്ങിക്കിടക്കുന്നത് എങ്ങനെ ശരിയാകും ഞാൻ വായുവിൽ ഒരു വര വരച്ചു അതിനാൽ ഇത് പ്ലസ് 0 ആയി എഴുതപ്പെടും അതിനാൽ നിരീക്ഷകൻ 2 ന് ഇതിലേക്ക് ആക്സസ് ഉണ്ട് നിരീക്ഷകൻ 1 ന് ഇതിലേക്ക് ആക്സസ് ഉണ്ട് അവർ അതിർവരമ്പുകൾ അംഗീകരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങൾ താരതമ്യം ചെയ്യുന്നത് ശരിയാണെന്ന് അവർ പറയുന്നു ഞാൻ സാങ്കൽപ്പിക ഉപരിതല അതിർത്തി വ്യവസ്ഥകൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും സാധുവായിരിക്കണം അതിനാൽ ഒരു പ്രശ്നവുമില്ലെന്ന് അവർ സമ്മതിക്കും ഇപ്പോൾ ചെറുതായി കളിക്കും മറ്റൊരു ഗെയിം കളിക്കും അതിനാൽ നിരീക്ഷകൻ 2 ന് അറിയാത്ത രീതിയിൽ നിരീക്ഷകനെ വിഡ്ഢിയാക്കുക എന്നതാണ് ഗെയിം അതിനാൽ നമ്മൾ ചെയ്യുന്നത് ഇവിടെയുള്ള അതേ സാഹചര്യം നമുക്ക് എടുക്കാം നിരീക്ഷകൻ 2 ഇവിടെ അവശേഷിക്കുന്നു ഇത് വോളിയം 1 ലേക്ക് കടക്കാൻ കഴിയില്ല ഇതാണ് V 1 ഞാൻ ചെയ്യുന്നത് അതിനാൽ ഇവിടെ E H ഉം E H ഉം ഉള്ള ഫീൽഡുകൾ 22 11 ഇവിടെ ഞാൻ ചെയ്യുന്നത് 0 ന് തുല്യമായ ഫീൽഡുകൾ സജ്ജീകരിക്കുക എന്നതാണ് ഇത് ശാരീരിക പ്രശ്നമല്ല എന്നത് എത്രത്തോളം തുല്യമായ പ്രശ്നമാണെന്ന് ഓർമ്മിക്കുക ഇവിടെ ശാരീരിക പ്രശ്നമുണ്ടായിരുന്നു ഇതൊരു ഗണിത പ്രശ്നമാണ് അതിനാൽ നമുക്ക് ഈ ഗെയിമിനൊപ്പം കളിക്കാം നിലവിലെ ഉറവിടങ്ങൾ ഇവിടെയുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള നിലവിലെ ഉറവിടങ്ങളെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല ഞാൻ ഇവിടെ ഫീൽഡുകൾ 00 ന് തുല്യമായി സജ്ജീകരിക്കുന്നു അതാണ് നിരീക്ഷകൻ 1 റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് നിരീക്ഷകൻ 1 ഒരു ചെറിയ വികൃതി കളിക്കാൻ പോകുന്നു നിരീക്ഷകൻ 1 ഫീൽഡുകൾ ഉള്ളിൽ 0 ആണെന്ന് പറയാൻ പോകുന്നു അതിനാൽ നിരീക്ഷകൻ 2 അതേ ചോദ്യം ചോദിക്കുന്നു അയാൾക്ക് ആക്സസ് ഉള്ള എന്റെ ഫീൽഡിന്റെ മൂല്യം പറയുന്നു ഇപ്പോൾ അവൻ നിരീക്ഷകനോട് ചോദിക്കുന്നു 1 ഹേയ് ഉള്ളിലെ ഫീൽഡ് ശരിയാണ് നിരീക്ഷകൻ 1 ഒരു കുഴപ്പക്കാരനായതിനാൽ ഓ ഫീൽഡിനുള്ളിലെ 0 എന്ന് പറയുന്നു അതിനാൽ 0 ഉള്ളിലെ ഫീൽഡ് സംരക്ഷിക്കാൻ സാഹചര്യം സംരക്ഷിക്കാനും ഭൌതികശാസ്ത്രത്തോട് സത്യസന്ധത പുലർത്താനും എവിടെയെങ്കിലും ഉണ്ടോ നിരീക്ഷകൻ 1 അവൻ പരിഹരിച്ചിരിക്കുന്നു ഞാൻ പൂജ്യം ഫീൽഡ് റിപ്പോർട്ടുചെയ്യാൻ പോകുന്നു ഈ സാഹചര്യം പരിഹരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ അത്തരം നിരീക്ഷകൻ 2 വ്യത്യസ്തമായി എന്തെങ്കിലും സംഭവിച്ചതായി അറിയുന്നില്ലേ കൃത്യമായി പറഞ്ഞാൽ ഞാൻ ഇവിടെയുള്ള അതിർത്തി വ്യവസ്ഥകൾ നോക്കുകയാണെങ്കിൽ നിരീക്ഷകൻ 1 ഉം നിരീക്ഷകൻ 2 ഉം എന്താണ് ഇവ രണ്ടും നിശ്ചയിക്കുന്നത് അപ്പോൾ ശേഷിക്കുന്ന വിടവ് എവിടെയാണ് ഇവിടെ ഈ പദത്തിലാണ് അതിനാൽ തുല്യമായ ഒരു ഗണിത വൈദ്യുതധാര ഞാൻ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനാൽ ഞാൻ പരിചയപ്പെടുത്തുകയാണെങ്കിൽ അതിനാൽ ഈ സാഹചര്യത്തിൽ 0 എഴുതുക ഇതായിരുന്നു ഞാൻ പുതിയത് അവതരിപ്പിക്കുന്നു ഇതിന്റെ മൂല്യമായി ഞാൻ എന്താണ് സജ്ജീകരിക്കേണ്ടത് ശരിയാണ് ഒരു സെറ്റിന് തുല്യമായ മൂല്യത്തെ പിന്തുണയ്ക്കുന്നു ശരി 0 ന് തുല്യമായി സജ്ജീകരിച്ചു അത് ശരിയാണ് ഒരു ഗണിതശാസ്ത്രം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ സാഹചര്യം സംരക്ഷിക്കുന്നു ഇത് ഇവിടെ ഒരു ഗണിത വൈദ്യുതധാരയാണ് അത് ഇതിന് തുല്യമാണ് അതിനാൽ ഇപ്പോൾ ഈ സാങ്കൽപ്പിക പ്രതലത്തിൽ മറ്റൊരു അതിർത്തി അവസ്ഥ അതിനാൽ നിരീക്ഷകൻ 1 ഫീൽഡുകൾ സംരക്ഷിക്കുന്നതിന് സമാനമായി നിലവിലുള്ള Ms ഉണ്ട് ഞാൻ നിലവിലെ Js അവതരിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ ഞാൻ ഈ തന്ത്രം ചെയ്താൽ എന്തെങ്കിലും വ്യത്യാസം നിരീക്ഷിക്കാൻ കഴിയും നിരീക്ഷകൻ 2 ന് വ്യത്യാസമൊന്നും അറിയില്ല നിരീക്ഷകൻ 2 ഈ വോളിയം 2 ന്റെ ഉള്ളിൽ എല്ലായിടത്തും ചുറ്റിനടക്കുന്നു അതിർത്തിയിൽ അത് നേരത്തെ ഉണ്ടായിരുന്ന ന് തുല്യമാണെന്ന് സ്ഥിരീകരിക്കുന്നു ഞാൻ ഈ സാങ്കൽപ്പിക വൈദ്യുതധാര ഇവിടെ വെച്ചതിനാൽ അതെ എന്നായിരിക്കും ഉത്തരം അതിനാൽ അതിർത്തി വ്യവസ്ഥകൾ നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ തൃപ്തികരമാണ് അതിനാൽ ഈ വോള്യത്തിനും ഈ വോള്യത്തിനും ഉള്ളിലെ ഫീൽഡുകൾ അദ്വിതീയ സിദ്ധാന്തമനുസരിച്ച് സമാനമാണ് കാരണം ഇ ടാൻ വ്യക്തമാക്കിയിട്ടുള്ളതിനാൽ രണ്ട് സാഹചര്യങ്ങളിലും ഒരേ ഫീൽഡ് രണ്ട് സാഹചര്യങ്ങളിലും തുല്യമായിരിക്കും അതിനാൽ എന്താണ് സംഭവിച്ചതെന്ന് നിരീക്ഷകൻ 2 ന് അറിയില്ല പക്ഷേ ഞാൻ എന്താണ് ചെയ്തതെന്ന് മൊത്തത്തിലുള്ള ചിത്രം നിങ്ങൾക്ക് ലഭിച്ചാൽ എന്താണെന്ന് നോക്കൂ ഞാൻ ഒരു വോളിയം പഞ്ച് ചെയ്ത് അതിന് പകരം 0 ഫീൽഡുകളും തുല്യമായ ഉപരിതല പ്രവാഹങ്ങളും നൽകി അതിനാൽ ഒബ്ജക്റ്റ് മാറ്റിസ്ഥാപിച്ചു ശരി അതിനാൽ ഇത് വീണ്ടും ഉപയോഗപ്രദമാകും ഉദാഹരണത്തിന് എന്റെ കമ്പ്യൂട്ടേഷന്റെ വിസ്തീർണ്ണം കുറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലായിടത്തും ഫീൽഡുകൾ കണക്കാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ചെറിയ വില നീക്കം ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ നൽകേണ്ടത് ഇതിലെ ഉപരിതല ഫീൽഡുകളാണ് അതിനാൽ അവർ പുതിയ അജ്ഞാതരായി മാറും പക്ഷേ ഇവിടെ ചെയ്തത് കുറച്ച് വോളിയം ഇല്ലാതാക്കുകയാണ് അതിനാൽ ഇവയാണ് തുല്യത തത്വങ്ങൾക്ക് പിന്നിലെ ഒരുതരം ന്യായവാദം വോളിയം തുല്യത ഒബ്ജക്റ്റിന് പകരം വോളിയം കറന്റ് J Ms എന്നിവ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചതായി ഞങ്ങൾ കണ്ടു ജെ തത്തുല്യമായ എം തത്തുല്യവും ഉപരിതല തത്തുല്യ തത്വത്തിൽ ഞാൻ ഒബ്ജക്റ്റിനെ ടാൻജൻഷ്യൽ ഉപരിതല പ്രവാഹങ്ങൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചു അതിനാൽ ഞങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് ഇപ്പോൾ ഇത് അൽപ്പം അമൂർത്തമായി തോന്നും പക്ഷേ കമ്പ്യൂട്ടേഷണൽ ഇലക്ട്രോമാഗ്നറ്റിക് ലെ ആദ്യ രീതി എടുക്കാൻ തുടങ്ങുമ്പോൾ ഇത് സമഗ്ര സമവാക്യ രീതിയാണ് ഇത് ചെയ്യുന്നത് വളരെ ഉപയോഗപ്രദമാകും അതിനാൽ ഒരു ഉദാഹരണം നിങ്ങൾക്ക് ഇവിടെ ഒബ്ജക്റ്റ് നൽകാം ഇതിന് വളരെ സങ്കീർണ്ണമായ ചില epsilon r ഉണ്ടായിരിക്കാം ഈ വോളിയം ഒഴിവാക്കിക്കൊണ്ട് സജ്ജീകരിച്ച് ഇതുപോലൊന്ന് ചെയ്യുന്നതിലൂടെ എനിക്ക് ഇത് കൈകാര്യം ചെയ്യേണ്ടതില്ല വിദ്യാർത്ഥി നിങ്ങൾ j n h നീക്കം ചെയ്തു ഈ വൈദ്യുതധാരകളെ കുറിച്ച് ഞാൻ വിഷമിക്കേണ്ടതില്ല കാരണം E H ഫീൽഡുകൾ നിർമ്മിക്കുക എന്നതാണ് ഈ വൈദ്യുതധാരകളുടെ പങ്ക് വിദ്യാർത്ഥി അതെ അതായത് അതെ ശരിയാണ് അതിനാൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന രണ്ട് പ്രധാന തുല്യത തത്വങ്ങളുടെ അവസാനത്തിലേക്ക് ഇത് നമ്മെ എത്തിക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ പ്രത്യേക ഉപരിതല തുല്യത തത്വം പ്രണയത്തിന്റെ തുല്യത സിദ്ധാന്തത്തിന്റെ പേരിലാണ് പോകുന്നത് ഞാൻ കളിക്കുന്ന ഈ ഗെയിം മുതൽ എനിക്ക് E 2 ക്രോസ് നിലനിർത്തേണ്ടിവരുമെന്ന് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയും അതിനാൽ ഞാൻ ചെയ്തത് എല്ലാ ഫീൽഡും 0 ഇട്ടു എല്ലാം കറന്റിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ടു എന്നാൽ മറ്റ് ചില സമത്വ തത്വങ്ങൾ ശരിയായ രീതിയിൽ വരുമെന്ന് എനിക്ക് ചിന്തിക്കാം സാഹിത്യത്തിൽ നിരവധിയുണ്ട് അതിനാൽ ഈ മറ്റ് സാഹചര്യങ്ങൾ നോക്കാൻ ഞാൻ നിങ്ങൾക്ക് തരാം എന്താണ് പ്രധാന ലക്ഷ്യം ഞാൻ നേരത്തെ ഒരിക്കൽ കൂടി സൂചിപ്പിച്ചതുപോലെ കണക്കുകൂട്ടലുകളിൽ വേദന കുറയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ പ്രശ്നം പരിഹരിക്കാൻ എളുപ്പമാകുന്ന തരത്തിൽ ഞങ്ങൾ ഈ തുല്യത തത്വങ്ങൾ നിർമ്മിക്കും അതിനാൽ ഉപരിതല തുല്യത തത്വത്തിന് പിന്നിലെ ആശയം അതാണ് ശരി അതിനാൽ ഈ മൊഡ്യൂളിനെ സംഗ്രഹിക്കാൻ ഞങ്ങൾ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളും അതിർത്തി വ്യവസ്ഥകളും ഉപയോഗിച്ച് ആരംഭിച്ചു പവർ പരിശോധിച്ചു ഇവ രണ്ടും വൈദ്യുതകാന്തിക ശരിയിലെ മുൻകൂർ ആശയങ്ങളായിരുന്നു അതിനാൽ നിങ്ങൾക്ക് നോക്കാം അതിനാൽ അദ്ധ്യായം 1 ഉം 7 ഉം അതിനാൽ ബാലാനിസിന്റെ അധ്യായം 1 1 2 3 എന്നീ വിഷയങ്ങളെക്കുറിച്ചും ബലാനിസിന്റെ 7 ാം അധ്യായത്തിൽ തുല്യതാ സിദ്ധാന്തങ്ങളെക്കുറിച്ചും അതുല്യത സിദ്ധാന്തങ്ങളെക്കുറിച്ചും നിങ്ങളോട് പറയും വളരെ നല്ല വായനാസുഖമുള്ള ഒരു പുസ്തകം ദയവായി ഇത് വായിക്കുക